നമുക്ക് ക്ലൌഡിലെ ഓപ്പൺ സോഴ്സ് വേറെ പലതും ബാക്കിയുള്ളവയെക്കുറിച്ച് നമുക്ക് ഇനി കാണാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഐ ഐ റ്റി ഖരക്പൂരിൽ പരീക്ഷണത്തിനുള്ള ഒരു ക്ലൌഡിനായി ഓപ്പൺ സോഴ്സ് പ്ളാറ്റ്ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും ഓരോ ജോലികളും അതിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നും അവിടെ എങ്ങനെയാണ് ഡിഅലോക്കേറ്റു ചെയ്യുന്നത് എന്നും അതുപൊലെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ മേഘമാലയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും കാണിച്ചു തരുന്നു രാജേഷിന്റെ കൈളിലേക്ക് ഈ ഓപ്പൺ സ്റ്റാക്ക് ആയ മേഘമാലയുടെ പ്രദർശനം കൈമാറുന്നതിനു മുൻപേ ഞാൻ ഒരു രണ്ടു സ്ലൈടിലൂടെ ഒരു അവലോകനം നടത്താം അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ സ്റ്റാക്ക് ആയ മേഘമാലയെയാണ് നോക്കുന്നത് നമുക്ക് ഇവിടെ വി എം ക്രിയേഷൻ ഉണ്ട് vm ക്രിയേഷന് ശേഷം ഒരു ഉപഭോക്താവ് എങ്ങനെയാണ് vm എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും vm ടെർമിഷനെക്കുറിച്ചും ഉണ്ട് മേഘമാലയിൽ പലതരത്തിലുള്ള vm കളുണ്ട് അതിനെക്കുറിച്ച് രാജേഷ് പറഞ്ഞുതരും ഇതാണ് മേഘമാലയുടെ പോർട്ടൽ അത് അതിന്റെ വ്യത്യസ്തമായ ആശയങ്ങളെ കാണിച്ചുതരുന്നു ഇത് പൊതുവായ ഒരു അവലോകനമാണ് ഇവിടെ പലതരത്തിലുള്ള അഭിരുചികളെയും കാണിക്കുന്നു ഉദാഹരണത്തിന് ഐഐടി കെ ജി പി റെഗുലർ

അപ്പോൾ ഇതാണ് 3 അഭിരുചികളിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മേഘധൂപ് മേഘമാലയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പക്ഷേ ഇവിടെ പ്രധാനമായും നമ്മൾ വിഎം ക്രിയേഷനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് മുഴുവനും ഓപ്പൺ സ്റ്റാക്കിന്നെ കുറിച്ചാണ് പറയുന്നത് ഇത് എവിഎം ഉപഭോക്താവിന് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ ഫോം ആണ് ഇത് മേഘമാലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആണ് ഇതിലേക്ക് നോക്കുക ഇതാണ് ഓപ്പൺ സ്റ്റാക്കിന്റെ ലോഗിൻ സ്ക്രീൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി കയറുവാൻ പറ്റുക ഇവിടെ പല തരത്തിലുള്ള ആശയങ്ങളെ കാണിക്കുന്നു അതിന്റെ ഉപഭോക്താവിന്റെ മൊത്തത്തിലുള്ള ഒരു സംമ്മറി കാണിക്കുന്നു ഇവിടെയുള്ള റിസ്റ്റോഴ്സ്സിന്റെ ഉപയോഗിക്കുന്നു പല സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വലിപ്പങ്ങളെക്കുറിച്ചും സ്നാപ്പ് ഷോട്ടുകളെക്കുറിച്ചും ആണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഇത് ഗ്ലാൻസ് സർവീസ് ആശയങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മൾ IPv4 രൂപഘടന ഉപയോഗിക്കുന്നു അതുപോലെ ഹൈപ്പർവൈസറുകളും ഉപയോഗിക്കുന്നു നോവ vCPU RAM ഹൈപ്പർവൈസറിൻറെ സ്റ്റോറേജിൻറെ വിശദാംശങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു ഇതാണ് പല അഭിരുചികളിലുള്ള കമ്പ്യൂട്ടർ സെർവർ അതായത് നോവ കമ്പ്യൂട്ട് സർവറുകൾ പല കാറ്റഗറിയിലുള്ള നിങ്ങൾക്കിവിടെ കാണാം കമ്പ്യൂട്ട് സെർവർ ഇമേജിങ് മേഘമാലയുടെ കമ്പ്യൂട്ട് സർവ്വീസിന്റെ മുഴുവൻ ഭാഗവും ഇനി ഞാൻ നിയന്ത്രണം രാജേഷിലേക്ക് കൊടുക്കുകയാണ് അദ്ദേഹം ഈ മേഘമാലയുടെ ഒരു ഡെമോ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരും അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഓപ്പൺ സ്റ്റാക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ നിന്നും തുടങ്ങും അവിടുന്ന് ഡാഷ്ബോർഡിലേക്ക് ചെന്നു വിഎമ്മിലേക്ക് പോകും ഇനി രാജേഷ് തുടങ്ങുകയാണ് നന്ദി സാർ അപ്പോൾ ഞാൻ ആരംഭിക്കുകയാണ് ഇതാണ് നമ്മുടെ സ്ഥാപനത്തിലെ ക്ലൌഡിന്റെ അതായത് മേഘമാലയുടെ ഹോം പേജ് ഇതാണ് ആ മുന്നു തരത്തിലുള്ള വെർച്ച്വൽ മെഷീനുകളുടെ സ്പെസിഫിക്കേഷൻസ് എന്നിവയാണ് നമുക്ക് ഇനി ഓപ്പൺ സ്റ്റാക്ക് ഇൻസ്റ്റലേഷനിലേക്ക് നോക്കാം അത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ എങ്ങനെ കാണാം എന്നു കാണിക്കാം ഇതാണ് ഡാഷ്ബോർഡ് ഞാൻ അതിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് ലോഗിൻ ചെയ്തു കഴിയുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ മൊത്തം 134 വി സി പി യുകൾ വരികയാണ് ഇവിടെയാണ് നമ്മൾ വിഎം എന്താണെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും കാണുന്നത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ VM ഇത് ക്ലൌഡിലെ സിൻടെറിന്റെ പട്ടിക തരുന്നു ഇമെജ് ഗ്ലാൻസിന്റെയാണ് നമ്മുടെ കൈയിൽ ഇപ്പോൾ ഉള്ള ഇമേജുകൾ ഇവയാണ് പക്ഷേ നിങ്ങൾക്ക് അറിയാം മൊത്തത്തിൽ മൂന്നു തരത്തിലുള്ള വി എം കൾ മാത്രമേ ഇവിടെ കൊടുക്കുകയുള്ളു നമ്മൾ എല്ലാം ഇവിടെ ഉപയോഗിക്കുന്നില്ല ഇത് പൊതുവായിട്ടുള്ളവയല്ല അവ അന്തരീയമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉള്ളതാണ് ഇവിടെ അക്സസും വി എം ലേക്ക് കടത്തിവിടേണ്ടത് എന്നും ഏതൊക്കെ ട്രാഫിക്കുകളെ കയറ്റരുത് എന്നും തീരുമാനിക്കുന്നത് ഇതാണ് അകത്തേക്കും പുറത്തേക്കും ആയി വരുന്ന ട്രാഫിക്കുകളെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് തീരുമാനിക്കുന്നത് ഇനി നമുക്ക് വി എമ്മിനെ എങ്ങനെ ഉണ്ടാക്കമെന്ന് നോക്കാം നമുക്ക് ഫയർവാളിനെ പ്രത്യേകമായി കോൺഫിഗർ ചെയ്യേണ്ടതില്ല നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പുകളെ കൊടുത്താൽ മതി തന്നെത്താനെ ഫയർ വാളിന്റെ നിയമങ്ങൾ അവിടെ വരും ഇനി അഡ്മിനിസ്ട്രേഷന്റെ പേജിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഉപഭോക്താവിന്റെ പേജ് ഇത് പ്രോജക്ട് പേജ് അഡ്മിൻ യൂസറും ഇവിടെ ഒരു വാടകക്കാരൻ ആണ് എനിക്ക് ഇവിടെ ഡാഷ്ബോർഡിൽ രണ്ട് കമ്പനികളാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് പ്രൊജക്റ്റ് മറ്റേത് അഡ്മിൻ ഇവിടെ മിക്ക കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കും വ്യത്യാസം വരുന്നത് ഹൈപ്പർവൈസറുകളുടെ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് എന്ന് അറിയാൻ പറ്റും നമുക്ക് മൂന്നു ഫിസിക്കൽ മെഷീനുകൾ ആണുള്ളത് ഓരോന്നിലും 48 വി സി പി യു കളും 20 ജിബി അല്ലെങ്കിൽ 25 ജിബി റാമുണ്ട് പിന്നെ 100 അല്ലെങ്കിൽ 101 ജിബി ആണ് ആദ്യത്തേതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 14 ഇൻസ്റ്റൻസ്സുകൾ ആണ് ഇവിടെ NPTEL എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇനി വി എം മിന്റെ പേരും ഫ്ളേവറും എത് ആണെന്നു കൊടുക്കണം ഇവിടെ ഐ ഐ റ്റി കെ ജി പി റെഗുലർ എന്നു കൊടുകുകയാണ് എത്ര വി എം വേണമെന്നുള്ളതിന് ഞാൻ ഇവിടെ ഒന്ന് എന്നിടുകയാണ് ഇൻസ്റ്റൻസ് ബൂട്ട് സോഴ്സിൽ ചൂണ്ടുന്നു അതിനെ നമുക്ക് വി എം ലോട്ട് കയറ്റുവാൻ സാധിക്കും ഇവിടെ സെന്റ്ഓസ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആക്സസ് സെക്യൂരിറ്റിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല നമ്മുടെ കൈയിൽ ആകപ്പാടെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് മാത്രമേ ഉള്ളു അതിനെ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നെറ്റ്വർക്കിന്റെ ഭാഗത്ത് നമുക്ക് രണ്ട് നെറ്റ്വർക്കുകളാണ് ഉള്ളത് ക്ലൌഡിൽ ഉള്ളതിൽ ഒന്ന് ബാഹ്യമായുള്ളതും മറ്റേത് അന്തരീകമായുള്ളതുമാണ് ഇപ്പോൾ ഞാൻ ആന്തരികമായ നെറ്റ്വർക്കിനെ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാഹ്യമായ ഉള്ള നെറ്റ്വർക്കിനെ നമുക്ക് പിന്നീട് നോക്കാം ഇവിടെ പോസ്റ്റ് ക്രിയേഷൻസ് സ്ക്രിപ്റ്റ് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും ഞാൻ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല ഈ ഒരു ഭാഗിക്കൽ തന്നത്താനെയാണ് നടക്കുന്നത് ഞാൻ ഇവിടെ ലോഞ്ച് അമർത്തുകയാണ് അതിലൂടെ വിഎമ്മിനെ ലോഞ്ച് ചെയ്യാൻ സാധിക്കും ദാ ഇവിടെ നിങ്ങൾക്ക് പുതിയ വി എം വന്നത് കാണാം ഇതിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ആണ് അതായത് ഇത് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അത് കുറച്ചു സമയമെടുക്കും രാജേഷ് നേരത്തെ തന്നെ 2 VM ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു ഒന്ന് NPTEL 1 അടുത്ത് 2 ഇവിടെ അപ്പോൾ രണ്ടു നെറ്റുവർക്കുകൾ ആണ് ഉള്ളത് ഒന്ന് അന്തരീകവും മറ്റൊന്ന് ബാഹ്യവും അത് നിങ്ങൾക്ക് ഇവിടെ കാണാം അന്തരീകമായ നെറ്റുവർക്കിൽ നിന്നും നമുക്ക് ഐപി വിലാസം കിട്ടി ഇനി ഞാൻ ബാഹ്യമായ നെറ്റുവർക്കിന്റെ ഐപി വിലാസം അലോക്കേറ്റു ചെയ്യുകയാണ് അതിനെ നമുക്ക് ക്ലൌഡിന്റെ പുറത്തുനിന്നും തന്നെ എടുക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ കൈയിൽ ഐ പി വിലാസം ഉണ്ട് ഈ ഒരു പട്ടിക നമ്മൾ തീർത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇവിടെ കയറ്റാം അതിനു ശേഷം പൂളിൽ നിന്നുള്ള ഐ പി വിലാസം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഞാൻ ഈ അസോസിയേറ്റിൽ നിന്നു വരുന്ന വി എമ്മുമായി എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ x2go എന്ന സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ക്ലൌഡിന്റെ വെബ്സൈറ്റിനകത്ത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഉപഭോക്താവിന് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതാ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണിച്ചു തരുവാൻ പോകുന്നു ഇതാണ് എക്സ്ടു ജി ഒ വിലാസവും വി എം ന്റെ ലോഗിൻ ഐ ഡിയും കൊടുക്കണം ഉദാഹരണത്തിന് നമ്മുടെ പുതിയ വി എം എന്നത് പത്ത് നാല് രണ്ട് 29 ആണ് ഇത് വി എം ന്റെ ഒരു പബ്ളിക്ക് ഐപി വിലാസമാണ് ലോഗിൻ ഐഡി സെൻടോസ് ആണ് ഇവിടെ സെഷ്ൻ ടൈപ്പ് എന്നത് സെൻടോസ് ടൈപ്പാണ് നമ്മൾ പിന്നെ എക്സ് എഫ് സി യെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു അതിനെ ഞാൻ തിരഞ്ഞെടുക്കയാണ് ഇനി പാസ്വേഡ് നമുക്ക് ഒന്ന് നോക്കണം അപ്പോൾ നിങ്ങൾ വിഎമ്മിൽ ആണ് കയറിയിരിക്കുന്നത് അതെ ഞാൻ ഇപ്പോൾ വിഎമ്മിൽ ആണ് കയറിയിരിക്കുന്നത് അപ്പോൾ എക്സ് ടു ജി ഒ യിൽ നിന്ന് മേഘമാലയുടെ വി എം ലേക്ക് കയറിയിരിക്കുകയാണ് അല്ലേ ഇനി നമുക്ക് വി എം ന് അകത്ത് ഇന്റർനെറ്റ് നോക്കാം നിങ്ങൾക്ക് കാണാം വി എം നകത്ത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് എടുക്കുവാൻ സാധിക്കും ഇത് മറ്റു മെഷീനുകളെ പോലെ തന്നെയാണ് സെൻടോസ് അല്ലെങ്കിൽ അതു പോലത്തെ ഏതെങ്കിലും ഓപ്പറേറ്റിങ് സിസ്റ്റത്തിൽ നിന്ന് ഇതിന് ഒരു വ്യത്യാസവും ഇല്ല ഇതു വരുന്നതുവരെ നമുക്ക് വേണമെങ്കിൽ മറ്റു ആശയങ്ങളെ കാണിക്കാം ഓപ്പൺ സ്റ്റാക്ക് ഡാഷ്ബോർഡിൽ ഉള്ളവയെ കാണിക്കുന്നതാണ് ഒരുപാട് ക്യാരക്ടറൈസേഷൻ അതിലുണ്ട് ഇവിടെ സ്റ്റാറ്റസ് ഇവിടെ vm ന്റെ പ്രവർത്തികളെ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ vm നെ ആയിരിക്കും മായ്ച്ചു കളയുന്നത് vm നെ ക്ലൌഡിൽ നിന്നും മായ്ച്ചുകളയുകയായിരിക്കും അതിലേക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ റിസോഴ്സുകളേയും അത് അപ്പോൾ പുറത്തേക്ക് വിടുകയാണ് ദാ ഇപ്പോൾ യൂട്യൂബിൽ നോക്കുകയാണ് vm ൽ യൂട്യൂബ് ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ആമുഖമാണ് അത് vm ൽ ആണ് ഓടുന്നത് നമുക്ക് മറ്റു കണക്കുകൂട്ടലുകളും ഇവിടെ ചെയ്യാം ഇവിടെ നമ്മൾ വി എം നെ ഉപയോഗിച്ചു കഴിഞ്ഞു ഇനി വി എം നെ എങ്ങനെ ടെർമിനേറ്റ് ചെയ്തിട്ട് റിസോഴ്സുകളെ പുറത്തേക്ക് വിടും എന്ന് നോക്കാം ദാ ഞാൻ ഇവിടെ ടെർമിനേറ്റിങ്ങ് അമർത്തുകയാണ് ഈ ഓപ്ഷൻ നേരെ ടെർമിനേറ്ററിലേക്കാണ് കൊണ്ടു പോകുന്നത് ഇൻസ്റ്റൻസിനെ ഞാൻ ടെർമിനേറ്റ് ചെയ്യുന്നു റിസോഴ്സ്കളെ പുറത്തേക്ക് വിടുകയാണ് ദാ നോക്കൂ ഇത് ഇപ്പോൾ ഇവിടെ കിട്ടുന്നില്ല നിങ്ങളുടെ കൈയ്യിൽ രണ്ട് സിസ്റ്റം വെച്ച് ഈ ഓപ്പൺ സ്റ്റാക്കിനെ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും ഓപ്പൺ സ്റ്റാക്കിനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെറിയ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് പക്ഷേ അത് നല്ലൊരു പരിശീലനമാണ്